അഫക്റ്റീവും സൈക്കോമോട്ടർ ഡൊമെയ്നുകളും പ്രതിപാദിക്കുന്ന മൊഡ്യൂൾ 1 ന്റെ യൂണിറ്റ് 14 ലേക്ക് സ്വാഗതം അവസാന സെഷനിൽ അതായത് യൂണിറ്റ് 13 ൽ എഞ്ചിനീയറിംഗിന് പ്രത്യേകമായ അറിവിന്റെ സ്വഭാവം നാം മനസിലാക്കുകയും എഞ്ചിനീയറിംഗ് പരിജ്ഞാനത്തിന്റെ വിഭാഗങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്തു നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിന്റെ പ്രത്യേക സ്വഭാവം കാണണമെങ്കിൽ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസർ വിൻസെൻടി നിർദ്ദേശിച്ച എഞ്ചിനീയറിംഗ് പരിജ്ഞാന വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്യണം അവസാന യൂണിറ്റിൽ നമ്മൾ നോക്കിയത് അതാണ് ഈ യൂണിറ്റിൽ പഠനത്തിലെ അഫക്റ്റീവ് ഡൊമെയ്നിന്റെ സ്വഭാവവും പ്രാധാന്യവും മനസിലാക്കാൻ നാം ശ്രമിക്കുന്നു സൈക്കോമോട്ടോർ ഡൊമെയ്നിന്റെ സ്വഭാവം മനസിലാക്കാൻ നാം ശ്രമിക്കും ഇപ്പോൾ ഇതിൽ നമ്മുടെ പഠനത്തിൽ അഫക്റ്റീവ് ഡൊമെയ്നിന് ഒരു പ്രധാന പങ്കുണ്ടെന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അഫക്റ്റീവ് ഡൊമെയ്നെ പഠനവുമായി എങ്ങനെ സമന്വയിപ്പിക്കാമെന്നും വൈജ്ഞാനിക പഠനം ശരിയായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കാമെന്നും നമുക്ക് ഇപ്പോഴും പൂർണ്ണമായി അറിയില്ല അതേസമയം സൈക്കോമോട്ടർ ഡൊമെയ്നിന്റെ പ്രാതിനിധ്യം കുറവാണ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ പശ്ചാത്തലത്തിൽ പ്രാധാന്യം കുറവാണ് എന്ന് നമുക്ക് പറയാം ഇവ രണ്ടും അഫക്റ്റീവ് ഡൊമെയ്നും സൈക്കോമോട്ടർ ഡൊമെയ്നും നമ്മൾ നോക്കും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില ഉപ പ്രക്രിയകളും എന്നാൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ കൂടാതെ അഫക്റ്റീവ് പഠനത്തിനും സൈക്കോമോട്ടോർ പഠനത്തിനും ഫലങ്ങൾ എഴുതാൻ നാം ഒരു ശ്രമവും നടത്തുന്നില്ല എന്നാൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോഴ്സിലെ ഒരു അദ്ധ്യാപകൻ അഫക്റ്റീവ് ഡൊമെയ്നിന്റെയും സൈക്കോമോട്ടോർ ഡൊമെയ്നിന്റെയും പങ്കിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം സാധ്യമാകുന്നിടത്തെല്ലാം അഫക്റ്റീവ് പഠനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അധ്യാപകൻ ഉൾപ്പെടുത്തണം ഇത് വിദ്യാർത്ഥിയുടെ പഠന നിലവാരം വളരെയധികം ഉയർത്തും ഈ രണ്ട് ഫലങ്ങളാണ് ഞങ്ങൾ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന പദം നോൺ കോഗ്നിറ്റീവ് അഥവാ വിജ്ഞാനേതര ഘടകങ്ങളാണ് അതിനർത്ഥം സ്വാധീനം ചെലുത്തുന്നതും മനഃശാസ്ത്രപരവുമാണ് ആത്മീയ ഡൊമെയ്ൻ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചേർക്കാം അതിലുള്ള ഘടകങ്ങളെ നോൺ കോഗ്നിറ്റീവ് ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു സ്കൂൾ വിദ്യാഭ്യാസം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള നോൺ കോഗ്നിറ്റീവ് ഘടകങ്ങളുടെ പങ്ക് അന്വേഷിക്കുന്നതിൽ വിപുലമായ ഗവേഷണമുണ്ട് വിദ്യാഭ്യാസ പ്രക്രിയയിലും തൊഴിൽ സാധ്യതകളിലുമുള്ള കോഗ്നിറ്റീവ് വശങ്ങളേക്കാൾ നോൺ കോഗ്നിറ്റീവ് ഘടകങ്ങളും കഴിവുകളും തുല്യമോ അതിലും പ്രധാനമോ ആണെന്ന് ഗവേഷണം തെളിയിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നോൺ കോഗ്നിറ്റീവ് ഘടകങ്ങളെ പരിപാലിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഗ്നിറ്റീവ് തലത്തിൽ നന്നായി പഠിക്കാൻ കഴിഞ്ഞേക്കും അത് നിങ്ങളുടെ തൊഴിൽ സാധ്യതകളെ വളരെയധികം വർദ്ധിപ്പിക്കും ഈ നോൺ കോഗ്നിറ്റീവ് ഘടകങ്ങൾ ഏതാണ് ഇവ ചില സൂചക പേരുകളാണ് കൃത്യമായ പേരുകളല്ല ഗ്രിറ്റ് ടെനസിറ്റി അഥവാ സ്ഥിരത ക്യൂരിയോസിറ്റി അഥവാ ജിജ്ഞാസ ആറ്റിട്യൂട് അഥവാ മനോഭാവം സെല്ഫ് കോൺസെപ്റ്റ് അഥവാ സ്വയം ആശയം സെല്ഫ് എഫീക്കസി അഥവാ സ്വയംപ്രാപ്തി ആൻക്സൈറ്റി കോപ്പിങ് സ്ട്രാറ്റജിസ് അഥവാ ഉത്കണ്ഠയെ നേരിടാനുള്ള തന്ത്രങ്ങൾ മോട്ടിവേഷൻ അഥവാ പ്രചോദനം പെർസീവെറാൻസ് അഥവാ സ്ഥിരോത്സാഹം കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം എന്നിവയാണ് പലപ്പോഴും നോൺ കോഗ്നിറ്റീവ് ഘടകങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നത് ഈ ഘടകങ്ങളിൽ പലതും ഞങ്ങൾ അഫക്റ്റീവ് ഡൊമെയ്ൻ എന്ന് വിളിക്കുന്നു ഇപ്പോൾ അഫക്റ്റീവ് ഡൊമെയ്ൻ മനസിലാക്കാൻ കൂടുതലും വികാരങ്ങളോടും അനുഭൂതിയോടും ബന്ധപ്പെട്ടിരിക്കുന്നു മാത്രമല്ല ഇത് സാധാരണയായി നൽകപ്പെട്ട സംഭവങ്ങൾ വസ്തുക്കൾ പെരുമാറ്റങ്ങൾ നയങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എന്നിവയോടുള്ള പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രതികരണത്തിന്റെ രൂപത്തിൽ പ്രദർശിപ്പിക്കപ്പെടും നിങ്ങൾ ഒരു സംഭവത്തിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വസ്തുവിലേക്കോ ആരുടെയെങ്കിലും പെരുമാറ്റത്തിലേക്കോ നോക്കുന്നു നിങ്ങൾ നോക്കുന്ന എന്തും തലച്ചോറ് വയർ ചെയ്യുന്നത് ഗ്രന്ഥി അമിഗ്ഡാലയിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രതികരണം സൃഷ്ടിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്ന പ്രദേശങ്ങളുണ്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ബോധപൂർവമായ പങ്കാളിത്തമില്ലാത്ത തലച്ചോർ അതിനോട് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് പ്രതികരണം അറ്റാച്ചുചെയ്യുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുന്നു ഇതിനർത്ഥം സമാനമായ ഒരു സംഭവം സംഭവിക്കുമ്പോഴെല്ലാം അതേ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രതികരണം നമ്മുടെ ബോധപൂർവമായ പ്രദേശത്തേക്ക് വരുന്നു മാത്രമല്ല അഫക്റ്റീവ് ഡൊമെയ്നിന് അത്തരം ഒരു പ്രബലമായ ഫലമുണ്ടാകാനുള്ള കാരണവും അതാണ് അഫക്റ്റീവ് പെരുമാറ്റങ്ങൾക്കൊപ്പം വ്യത്യസ്ത അളവിലുള്ള വികാരങ്ങൾ ഉണ്ടാകുകയും വ്യത്യസ്തമായ "സമീപനം" അല്ലെങ്കിൽ "ഒഴിവാക്കൽ" മുൻതൂക്കങ്ങൾ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു അതിനർത്ഥം ഈ വികാരങ്ങൾ ചെയ്യുന്നത് സമീപനത്തിന്റെ രൂപത്തിൽ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് അതായത് ഞാൻ പങ്കെടുക്കാൻ തയ്യാറാണ് അതേസമയം ഒഴിവാക്കൽ എന്നാൽ ഞാൻ അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തുന്നു പോസിറ്റീവ് നെഗറ്റീവ് പ്രതിപ്രവർത്തനങ്ങളുടെ ശേഖരണം എങ്ങനെയാണ് നടക്കുന്നത് പരിസ്ഥിതിയുമായി ഇടപഴകുന്നതിൽ ഒരു വ്യക്തിയുടെ മുൻകാല അനുഭവം കാരണം ജനിച്ച കാലം മുതൽ തന്നെ ഒരു വ്യക്തി പരിസ്ഥിതിയുമായി ഇടപഴകുന്നു ആ പ്രത്യേക ഘട്ടത്തിൽ അത് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്നത് തുടർച്ചയായി മുദ്രണം ചെയ്യപ്പെടുന്നു അതാണ് അഫക്റ്റീവ് പ്രതികരണങ്ങളുടെ സ്വഭാവവും വ്യാപ്തിയും തീരുമാനിക്കുന്നത് ഒരു ഘട്ടത്തിലും നിങ്ങൾക്ക് ഇതെല്ലാം പഴയപടിയാക്കാൻ കഴിയില്ല അതിനാൽ നിങ്ങളുടെ പഠന ലക്ഷ്യങ്ങൾ നേടുന്നതിന് നിങ്ങൾ അവരോടൊപ്പം പ്രവർത്തിക്കണം അല്ലെങ്കിൽ അവർക്ക് ചുറ്റും പ്രവർത്തിക്കണം വികാരങ്ങൾ മനോഭാവങ്ങൾ അഭിനന്ദനങ്ങൾ ആസ്വദിക്കുക സംരക്ഷിക്കുക ബഹുമാനിക്കുക പിന്തുണയ്ക്കുക തുടങ്ങിയ മൂല്യങ്ങളുമായി അഫക്റ്റീവ് ഡൊമെയ്ൻ ബന്ധപ്പെട്ടിരിക്കുന്നു വികാരം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് നാം കാണും യഥാർത്ഥത്തിൽ ഈ നാലും പരസ്പരവിരുദ്ധമല്ല ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കും അവബോധം താൽപ്പര്യം ശ്രദ്ധ ആശങ്ക ഉത്തരവാദിത്വം എന്നിവയുടെ മനോഭാവം സൂചിപ്പിച്ചുകൊണ്ട് അഫക്റ്റീവ് പെരുമാറ്റങ്ങൾ പ്രകടമാക്കുന്നു അതായത് നിങ്ങൾക്ക് ഒരു നല്ല അഫക്റ്റീവ് പെരുമാറ്റമുണ്ടെങ്കിൽ അത് ആദ്യം അതിനെക്കുറിച്ചുള്ള അവബോധമായി പ്രതിഫലിക്കുന്നു അതിനർത്ഥം എന്തെങ്കിലും അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അത് ശ്രദ്ധിക്കുകയും കുറച്ച് താൽപ്പര്യം കാണിക്കുകയും കൂടുതൽ ശ്രദ്ധിക്കുകയും ചിലപ്പോൾ ഉത്കണ്ഠ കാണിക്കുകയും ചിലപ്പോൾ നിങ്ങൾ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യും അതിനാൽ അഫക്റ്റീവ് പെരുമാറ്റങ്ങൾ ഇത് പ്രകടമാക്കുന്നു മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിൽ ശ്രദ്ധിക്കാനും പ്രതികരിക്കാനുമുള്ള കഴിവ് ഇത് പ്രകടമാക്കുന്നു തന്നിരിക്കുന്ന സാഹചര്യത്തിന് അനുയോജ്യമായ ആ മനോഭാവ സവിശേഷതകളോ മൂല്യങ്ങളോ പ്രകടിപ്പിക്കാനുള്ള കഴിവ് ഇഷ്ടം അനിഷ്ടം മനോഭാവം മൂല്യം വിശ്വാസം വികാരം താൽപ്പര്യം അഭിനന്ദനം സ്വഭാവരൂപീകരണം എന്നിവയിലൂടെ പഠനമേഖലയെ തിരിച്ചറിയുന്നു നിങ്ങൾ വിദ്യാർത്ഥിയുടെ തലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പോലും നാം ഈ വാക്കുകൾ തുടർച്ചയായി ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ എഞ്ചിനീയറിംഗിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ഏതെങ്കിലും വിഷയം എടുക്കുകയാണെങ്കിൽ നല്ലതോ ചീത്തയോ ആയ വിഷയം എന്നൊന്നില്ല ഒരു വിഷയം ഒരു വിഷയമാണ് പക്ഷേ നമ്മൾ ഒരു വിഷയം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയുന്നു വിഷയത്തോടുള്ള നമ്മളുടെ വികാരങ്ങൾ നാം പ്രകടിപ്പിക്കുന്നു അതിനു വിജ്ഞാനവുമായി യാതൊരു ബന്ധവുമില്ല എല്ലാ വിഷയവും ഒരു അർത്ഥത്തിൽ പ്രധാനമാണ് അവ പ്രസക്തമാണ് അതിനാൽ പരിസ്ഥിതിയുമായി ഇടപഴകുന്ന നമ്മുടെ മുൻകാല ചരിത്രത്തെ അടിസ്ഥാനമാക്കിയാണ് നാം വികസിക്കുന്നത് വാക്കുകൾ ഉപയോഗിച്ച് നാം നമ്മുടെ അഫക്റ്റീവ് പ്രതികരണങ്ങൾ വികസിപ്പിക്കുന്നു ഈ വിഷയം എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ എനിക്കിഷ്ടമാണെന്ന് നാം എത്ര തവണ പറയുമായിരുന്നു നാമെല്ലാവരും അത് ചെയ്യുന്നു അത് അഫക്റ്റീവ് പ്രതികരണമാണ് ഇപ്പോൾ അഫക്റ്റീവ് ഡൊമെയ്നിന്റെ നിരവധി ടാക്സോണമി ഉണ്ട് ആദ്യത്തേതിൽ ഒന്ന് ക്രാത്ത്വോളിന്റെ Krathwohl's സംഘം '60 കളുടെ തുടക്കത്തിൽ അവതരിപ്പിച്ചു ഇവ റീസീവ് അഥവാ സ്വീകരിക്കുക റെസ്പോണ്ട് അഥവാ പ്രതികരിക്കുക വാല്യൂ അഥവാ വിലമതിക്കുക ഓർഗനൈസ് അഥവാ ചിട്ടപ്പെടുത്തുക കാരക്ടറൈസ് അഥവാ വിശേഷിപ്പിക്കുക എന്നിവയാണ് ഏകദേശ അർഥത്തിൽ റീസീവ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയിലാണ് ആ ഘട്ടത്തിൽ നിങ്ങൾ നിസ്സംഗരല്ല പല പ്രഭാഷണങ്ങളിലും നാം പ്രത്യേകമായി ശ്രദ്ധിക്കാത്ത ഒരു വിഷയം കേൾക്കുമ്പോൾ ആ വിവരം നമ്മളിലേക്ക് കടക്കാൻ പോലും നാം അനുവദിക്കുന്നില്ല നമ്മൾ ആ വിവരം സ്വീകരിക്കുന്നില്ല നമ്മൾ നമ്മളെത്തന്നെ തടയുന്നു അടുത്ത ഘട്ടം നമുക്കിഷ്ടമാണെങ്കിൽ നാം അതിനോട് പ്രതികരിക്കാൻ തുടങ്ങും ഒരു ചോദ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാൻ നാം തയ്യാറാണ് കുറച്ച് പ്രതികരണങ്ങൾക്ക് ശേഷം അതിൽ നാം ചില മൂല്യം കാണുന്നു നിങ്ങൾ ഒരു മൂല്യം ചേർക്കുന്നു അതിനർത്ഥം ഇത് നിങ്ങൾക്ക് താൽപര്യമുണർത്തുന്നതോ പ്രസക്തമോ ആണെന്ന് നിങ്ങൾ കരുതുന്നു എന്നാണ് എന്നാൽ പിന്നീട് എന്ത് സംഭവിക്കും ഈ മൂല്യത്തെ നിങ്ങൾ കൂടുതൽ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ അത് ചിട്ടപ്പെടുത്തുന്നു നിങ്ങളുടെ നിലവിലെ അവസ്ഥയുമായി ബന്ധപ്പെടുത്തി അതിന്റെ പ്രസക്തിയെ നിങ്ങൾ യുക്തിസഹമായി മനസിലാക്കുന്നു എന്നാണ് ഇതിനർത്ഥം അർത്ഥത്തിൽ നിങ്ങളുടെ നിലവിലുള്ള മൂല്യവ്യവസ്ഥയിലേക്ക് ഈ പുതിയ മൂല്യങ്ങൾ സംയോജിപ്പിക്കാൻ നിങ്ങൾ ആരംഭിക്കുകയും നിങ്ങളുടെ മുമ്പത്തെ മൂല്യങ്ങളുമായി യുക്തിസഹമാക്കുകയും ബന്ധപ്പെടുത്തുകയും ചെയ്യും അടുത്ത ഉയർന്ന തലത്തിൽ ഇത് നിങ്ങളുമായി സമഗ്രമായി സംയോജിപ്പിച്ചിരിക്കുന്നതിനാൽ പുതിയ മൂല്യഘടനയനുസരിച്ച് പ്രവർത്തിക്കാനും ചേർക്കാനും നിങ്ങൾ തയ്യാറാണ് ഏകദേശം ഇതാണ് നിങ്ങൾ അഫക്റ്റീവ് ഡൊമെയ്നിന്റെ ടാക്സോണമി എന്ന് വിളിക്കുന്നത് എന്നാൽ പിയേഴ്സും ഗ്രേയും അവതരിപ്പിച്ച കുറച്ചുകൂടി വിശദമായ ടാക്സോണമി ഉണ്ട് ഈ ആറ് ഘട്ടങ്ങളും ക്രാത്ത്വോളിന്റെ ടാക്സോണമിക്ക് സമാനമാണ് ഇവിടെ ആദ്യ ഘട്ടം പെർസിവിങ് അഥവാ ഗ്രഹിക്കുക എന്നതാണ് ഇത് രണ്ട് ഉപ പ്രക്രിയകളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ഇമോറ്റീവ് ഇംപ്ലാന്റിംഗ് അഥവാ വൈകാരികമായ ഉറപ്പാക്കൽ റെസ്പോൺസ് സെറ്റിങ് അഥവാ പ്രതികരണ ക്രമീകരണം ഇവ രണ്ടും പൂർണ്ണമായും ആന്തരികമാണ് മാത്രമല്ല അവ പെട്ടെന്ന് ഒരു അഫക്റ്റീവ് സ്വഭാവത്തിനും കാരണമാകില്ല അതിനർത്ഥം ഇമോട്ടീവ് ഇംപ്ലാന്റിംഗ് അർത്ഥമാക്കുന്നത് സെൻസറി വിവരങ്ങളുള്ളവയെല്ലാം വൈകാരികമായി നിവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ നിസ്സംഗത പുലർത്തുന്നുവെന്ന് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിക്കുന്ന കുറച്ച് വാക്കുകൾ എഴുതുക നിങ്ങൾക്ക് താൽപ്പര്യമില്ലെന്ന് പറയുകയും തുടർന്ന് നിങ്ങളുടെ പ്രതികരണങ്ങൾ അടയ്ക്കുകയും ചെയ്യും അതിനാൽ ആദ്യം ഇമോട്ടീവ് ഇംപ്ലാന്റിംഗ് ആണ് അതിനുശേഷം നിങ്ങൾ സജ്ജമാക്കുകയാണ് അതിനോട് പ്രതികരിക്കുന്നതിന് നിങ്ങൾ സ്വയം തയ്യാറാകുന്നു അപ്പോൾ നിങ്ങൾ പ്രതികരിക്കും പ്രതികരിക്കുക എന്നതിനർത്ഥം നിങ്ങൾ ഇപ്പോൾ ഇമോട്ട് ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം നിങ്ങൾക്ക് വികാരം പ്രകടിപ്പിക്കാനും ആ വികാരം തിരിച്ചറിയാനും കഴിയും ഇമോട്ടിംഗിന് ശേഷം തിരിച്ചറിയുന്നു ഇവിടെയാണ് ചില കോഗ്നിറ്റീവ് പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയാൻ ആരംഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ആ വികാരം നിയന്ത്രിക്കും അപ്പോൾ വരുന്ന മറ്റൊരു ഘട്ടം കൺഫോർമിങ് അഥവാ അനുരൂപമാണ് നിങ്ങൾ ആദ്യം അത് വികസിപ്പിക്കുക ഇത് നിങ്ങളിൽ ആന്തരികവൽക്കരിക്കപ്പെടുന്നില്ല നിങ്ങളെ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ ഒരു കൃത്രിമ മനോഭാവം വികസിപ്പിക്കുന്നു അതെ ഇത് പ്രധാനപ്പെട്ടതാകാം ഇത്തരത്തിലുള്ള ഒരു കാര്യം നോക്കാം ആവർത്തിച്ചതിന് ശേഷം നിങ്ങൾ അത് പ്രധാനമാണെന്ന് കരുതുന്നു അതായത് നിങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി ഗൌരവമായി കാണുന്നു ഇത് സ്ഥിരമായ ഒരു മനോഭാവമായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾ സമാനമായ ഒരു സംഭവത്തെ അഭിമുഖീകരിക്കുമ്പോഴെല്ലാം അതേ മനോഭാവമാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് അത് ഇപ്പോഴും സ്വാഭാവികമല്ല അതുപോലുള്ള കുറച്ച് അഭിമുഖങ്ങൾക്കു ശേഷം നിങ്ങൾ സ്ഥിരമായി മനോഭാവം കാണിക്കുകയും പിന്നീട് യുക്തിസഹമാക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അതിനർത്ഥം ഇത് പ്രധാനപ്പെട്ടതാണെന്നും അത് കണക്കിലെടുക്കേണ്ടതുണ്ടെന്നും നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തുന്നുവെന്നാണ് അടുത്ത ഉയർന്ന തലത്തിലുള്ള വൈജ്ഞാനിക പ്രവർത്തനമാണിതെന്ന് നിങ്ങൾ യുക്തിസഹമാക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ സാധൂകരിക്കുന്നു നിങ്ങൾ മൂല്യങ്ങൾ പരിശോധിക്കുകയും മൂല്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു ഇവയിൽ രണ്ടെണ്ണവുമായി കൂടുതൽ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നിട്ട് പരിശോധിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ശേഷം നിങ്ങൾ ഇപ്പോൾ വിധിക്കുന്നു ഉദാഹരണത്തിന് ഞാനെന്തിനാണ് ഇത് സ്വീകരിച്ച് മാനസികാവസ്ഥയുടെ ഭാഗമാക്കുന്നത് അതായത് അത് സ്വീകരിക്കുന്നതിന് നിങ്ങൾ ആദ്യം ചില മൂല്യ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയും ഒടുവിൽ വിധിക്കുകയും ചെയ്യുന്നു വിധിന്യായത്തിനുശേഷം അത് നിങ്ങളുടേതായി അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു അതിനുശേഷം അടുത്ത ഘട്ടം അഫക്റ്റീവ് ക്രിയേറ്റ് ആണ് അതിന്റെ അർത്ഥമെന്താണ് ഇപ്പോൾ പുതിയ മൂല്യങ്ങൾ ഞങ്ങളുടെ നിലവിലുള്ള മൂല്യങ്ങളുമായി സംയോജിക്കുന്നു ഇപ്പോൾ നിങ്ങൾ സമന്വയിപ്പിക്കുന്ന രീതി നിങ്ങളെ തികച്ചും വ്യത്യസ്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നയിച്ചേക്കാം ഇവിടെ നിങ്ങൾ ഉയർന്ന നിലയെ ഇൻസ്പിറേഷനൽ ഇൻസൈറ്റ് അഥവാ പ്രചോദനാത്മക ഉൾക്കാഴ്ചയെന്ന് വിളിക്കുന്നു അതാണ് പിയേഴ്സും ഗ്രേയും ഏറ്റവും ഉയർന്ന വശം എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് കോഗ്നിറ്റീവ് ഡൊമെയ്നിൽ ഏറ്റവും ഉയർന്ന വൈജ്ഞാനിക നില ക്രീയറ്റ് അഥവാ സൃഷ്ടിക്കുക എന്നതാണ് അതിനാൽ ഇവിടെ ഇത് അഫക്റ്റീവ് ക്രീയറ്റ് ആണ് നിങ്ങൾ കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ഒരു പുതിയ മാർഗം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ അതേ ടാക്സോണമി അഫക്റ്റീവ് ഡൊമൈൻ ഇമോഷണൽ ഇന്റലിജൻസ് അനുസരിച്ച് മറ്റൊരു വിധത്തിൽ നോക്കിക്കാണാൻ കഴിയും അത് ഇപ്പോൾ കഴിഞ്ഞ 20 25 വർഷമായി തികച്ചും സ്വീകാര്യമായിത്തീർന്നിരിക്കുന്നു മാത്രമല്ല ഒരാളുടെ വികാരങ്ങൾ അറിയുന്നത് പോലുള്ളവ ലളിതമായ വാക്കുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു അതിനെയാണ് ഞങ്ങൾ മുമ്പത്തെ പെർസിവ് റീയാക്ട് എന്ന് വിളിച്ചത് ഈ രണ്ട് പ്രവർത്തനങ്ങളും ഒരാളുടെ സ്വന്തം വികാരങ്ങൾ അറിയുന്നതാണെന്ന് നിങ്ങൾക്ക് പറയാം ഒരാളുടെ വികാരങ്ങൾ അറിയുന്നത് നിങ്ങൾ വികാരങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അല്ലാതെ ഓരോ മനുഷ്യനും വേണ്ട അടിസ്ഥാന നൈപുണ്യമാണിത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ അഫക്റ്റീവ് സ്വഭാവം വളരെ മെച്ചപ്പെടും ഒരാൾ സ്വന്തം വികാരങ്ങൾ അറിയുകയാണ് അതിനർത്ഥം എനിക്ക് ഇപ്പോൾ സങ്കടമോ ദേഷ്യമോ മറ്റേതെങ്കിലും വികാരമോ തോന്നുന്നുവെന്ന് ഒരാൾ സ്വയം സമ്മതിക്കണം അത്തരത്തിലുള്ളത് എനിക്ക് തോന്നുന്നുവെന്ന് ആദ്യം ഞാൻ സ്വയം അംഗീകരിക്കണം പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ എന്റെ സ്വന്തം വികാരം പോലും എനിക്കറിയില്ലെങ്കിൽ എന്റെ പ്രതികരണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ എനിക്ക് നിയന്ത്രണമുണ്ടാകില്ല എല്ലാവരും അനുഭവിക്കുന്ന ഏറ്റവും സാധാരണമായ വികാരമാണ് കോപം കോപത്തെ എങ്ങനെ നിയന്ത്രിക്കാം ആദ്യത്തെ കാര്യങ്ങളിലൊന്ന് കോപത്തോട് എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ പ്രതികരിക്കരുത് എന്നതാണ് ഓരോ തവണയും സാഹചര്യത്തെ ആശ്രയിച്ച് കൂടാതെ നിങ്ങൾക്ക് സാഹചര്യത്തിന്റെ നിയന്ത്രണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നടപ്പിലാക്കാൻ ഒരാൾക്ക് കഴിയണം നിങ്ങൾ എല്ലായ്പ്പോഴും ദേഷ്യപ്പെടുകയാണെങ്കിൽ എന്തു സംഭവിക്കും നിങ്ങൾ അതേ രീതിയിൽ പെരുമാറുന്നു നിങ്ങളുടെ പെരുമാറ്റം പ്രവചനീയമാകുന്നു നിങ്ങൾ പ്രവചനീയമാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നിങ്ങളെ ചൂഷണം ചെയ്യാൻ കഴിയും അതിനാൽ വികാരങ്ങൾ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായോ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലായാലും നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെയധികം സഹായിക്കും അടുത്ത ഘട്ടം സ്വയം പ്രചോദിപ്പിക്കുകയും പിന്നീട് മറ്റുള്ളവരിലെ വികാരങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുക എന്നതാണ് അതാണ് അടുത്ത ലെവൽ ശേഷി മറ്റുള്ളവരിലെ വികാരങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയുമോ മറ്റുള്ളവരിലെ വികാരങ്ങൾ തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നുവെങ്കിൽ മറ്റുള്ളവരുമായുള്ള ബന്ധം എനിക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയും അതിനാൽ ഈ തലത്തിൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് വൈകാരിക ബുദ്ധിയെക്കുറിച്ചുള്ള പ്രസിദ്ധമായ പുസ്തകം നോക്കാം അഫക്റ്റീവ് ഡൊമെയ്നിനായി വൈജ്ഞാനിക തലത്തിൽ നമുക്ക് ചില പ്രവർത്തന ക്രിയകൾ ഉണ്ട് ഇവ കുറച്ച് വാക്കുകളാണ് പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചേർക്കാൻ കഴിയും അക്സെപ്റ്റ് അറ്റംപ്റ്റ് ചലഞ്ജ് ഡിഫൻഡ് ഡിസ്പ്യൂട് ജോയിൻ ജഡ്ജ് പ്രൈസ് ക്വസ്റ്റൻ ഷെയർ സപ്പോർട്ട് വോളന്റീർ എന്നിങ്ങനെ അവയിൽ ചിലത് വൈജ്ഞാനിക വിഭാഗങ്ങളായി കാണപ്പെടാം കാരണം ക്രിയാപദങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ളതും അത്തരം ക്രിയാപദങ്ങളും ഈ ബാധകമായ ഉപവിഭാഗത്തിന്റേയോ ഈ വൈജ്ഞാനിക ഉപവിഭാഗത്തിന്റേയോ മാത്രമാണുള്ളതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല ഇപ്പോൾ സൈക്കോമോട്ടർ ഡൊമെയ്നിലേക്ക് വരുമ്പോൾ അതിൽ ശാരീരിക ചലനം ഏകോപനം മോട്ടോർ നൈപുണ്യ മേഖലകളുടെ ഉപയോഗം എന്നിവ ഉൾപ്പെടുന്നു പ്രത്യേകിച്ചും പ്രൈമറി സ്കൂൾ പ്രായത്തിലോ പ്രീ സ്കൂൾ പ്രായത്തിലോ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്ക് മോട്ടോർ കഴിവുകളിൽ പരിശീലനം നൽകേണ്ടതു പ്രധാന കാര്യം ആണ് കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വ്യക്തമായി പരിശീലനം ആവശ്യമാണ് നടക്കാൻ പഠിക്കാൻ പോലും ധാരാളം പരിശീലനം ആവശ്യമാണ് നിൽക്കാൻ പഠിക്കുന്നന്നതിന് പരിശീലനം ആവശ്യമാണ് ഓടാൻ ധാരാളം പരിശീലനം ആവശ്യമാണ് അതിനാൽ കഴിവുകൾ അളക്കുന്നത് വേഗത കൃത്യത ദൂരം നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നിർവ്വഹണത്തിലെ സാങ്കേതികതകളാണ് എന്നാൽ ഇപ്പോൾ നമ്മളുടെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ നടത്തുന്ന രീതിയിൽ സൈക്കോമോട്ടോർ പ്രവർത്തനങ്ങളുടെ പങ്ക് കേന്ദ്രമോ പ്രാധാന്യമോ ഉള്ള കോഴ്സുകളുടെ എണ്ണം വളരെ കുറവാണ് അതായത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കഴിവുകൾ വികസിപ്പിക്കണമെന്ന് നാം പ്രതീക്ഷിക്കുന്നില്ല നിങ്ങളുടെ ലെയ്ത്ത് വളരെ കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നതിനോ ആവശ്യമുള്ള കൃത്യമായ ഘടകങ്ങൾ ടേൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ എങ്ങനെ ശരിയായി സോൾഡർ ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാം എന്നിരിക്കട്ടെ പക്ഷെ വേഗതയും കൃത്യതയും കൈവരിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നില്ല അല്ലേ അതിനാൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളിൽ സൈക്കോമോട്ടോർ പ്രവർത്തനങ്ങളുടെ പങ്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ഈ പ്രവർത്തനങ്ങൾ നാടകത്തിലെ പ്രോഗ്രാമുകളിൽ പ്രധാനവും പ്രബലവുമായിത്തീരുന്നു കാരണം ഒരാൾ അഭിനയിക്കണം അതിനാൽ മുഖഭാവം മുതൽ ശരീര ചലനങ്ങൾ വരെ നിങ്ങൾക്ക് ആവശ്യമാണ് ഉദാഹരണത്തിന് സംഗീതം പെയിന്റിംഗ് സ്പോർട്സ് മെഡിസിൻ നഴ്സിംഗ് ദന്തചികിത്സ അടിയന്തിര മെഡിക്കൽ സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം സൈക്കോമോട്ടോർ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനമാണ് സൈക്കോമോട്ടോർ ഡൊമെയ്നിന്റെ ടാക്സോണമി ആദ്യമായി നിർദ്ദേശിച്ച സിംപ്സന്റെ സിംപ്സൺസ് ഗ്രൂപ്പ് ഏഴ് ഉപവിഭാഗങ്ങൾ നൽകി പെർസെപ്ഷൻ സെറ്റ് ഗൈഡഡ് റെസ്പോൺസ് മെക്കാനിസം കോംപ്ലക്സ് ഓവർട് റെസ്പോൺസ് അഡാപ്റ്റേഷൻ ഒറിജിനേഷൻസ് നമ്മൾ ഇതിലൂടെ പോകില്ല സൈക്കോമോട്ടോർ ഡൊമെയ്നിന്റെ പിയേഴ്സ് ഗ്രേ ടാക്സോണമിയിലൂടെ നമുക്ക് കടന്നു പോകാം നിങ്ങൾ കാണുംപോലെ ഇത് അഫക്റ്റീവ് ഡൊമെയ്നിന്റെ പിയേഴ്സ് ഗ്രേ വർഗ്ഗീകരണത്തിന് സമാനമാണ് ആദ്യം സെൻസറി ട്രാൻസ്മിഷൻ ഫിസിയോ ഫംഗ്ഷണൽ മെയിന്റനൻസ് തുടർന്ന് ഫിസിക്കൽ ഔട്ട്പുട്ടുകൾ സജീവമാക്കുന്നു ഒരു ടേബിൾ ടെന്നീസിലോ ടെന്നീസ് ഗെയിമിലോ ഒരു ബാറ്റ് എങ്ങനെ പിടിക്കാമെന്ന് ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ആ സ്ഥാനത്ത് ബാറ്റ് പിടിക്കാൻ കഴിയണം തുടർന്ന് മിമിക്രി ഒരു പന്ത് എങ്ങനെ അടിക്കാമെന്ന് ആരോ കാണിക്കുന്നു പന്ത് എങ്ങനെ വരുന്നു എന്നതിനെ ആശ്രയിച്ച് അദ്ദേഹം അതിൽ വ്യത്യസ്ത ചലനങ്ങൾ കാണിക്കുന്നു അതിനാൽ നിങ്ങൾ ആ പ്രവർത്തനം അനുകരിക്കുന്നു ആ പരിശീലനത്തിന് ശേഷം നിങ്ങളുടെ ചലനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അത് രൂപപ്പെടുത്തുന്നു തുടർന്ന് നിങ്ങൾ നടപ്പിലാക്കുന്നു നിങ്ങളോട് പറഞ്ഞ രീതിയിൽ പരിശീലനം ലഭിച്ച രീതിയിൽ നിങ്ങൾ നടപ്പിലാക്കാൻ ആരംഭിക്കുന്നു തുടർന്ന് നിങ്ങൾ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങും ഇത് ഓപ്പറേഷൻ എക്സിക്യൂഷനാണ് തുടർന്ന് നിങ്ങളുടെ എക്സിക്യൂഷന്റെ കഴിവ് വർദ്ധിപ്പിക്കാൻ ആരംഭിക്കുന്നു തുടർന്ന് നിങ്ങൾ മെനൂവാ ചെയുന്നു നിങ്ങളുടെ സ്വന്തം കഴിവ് പരിശോധിച്ച് നിങ്ങളുടെ കഴിവുകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് ഇത് അതിനുശേഷം നിങ്ങൾ ചില പ്രകടന മാനദണ്ഡങ്ങൾ സജ്ജമാക്കി നിങ്ങളുടെ സ്വന്തം പ്രകടനത്തെ വിലയിരുത്തുന്നു നിങ്ങളുടെ സ്വന്തം പ്രകടനം വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയും സൈക്കോമോട്ടോർ ക്രീയേയ്റ്റിംഗ് എന്താണ് സംഭവിക്കുന്നത് എന്നതിനർത്ഥം വ്യത്യസ്ത കഴിവുകൾ സംയോജിപ്പിച്ച് നിങ്ങൾ സ്വയം വികസിക്കുന്നു എന്നാണ് അത്തരമൊരു പ്രകടനം ഉൾക്കാഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് നിങ്ങളുടെ പ്രവർത്തനം തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ പ്രകടിപ്പിക്കുന്ന രീതി അവരുടേതായ സവിശേഷമായ ഒന്ന് അത്തരം അഭിനേതാക്കളെ നിങ്ങൾ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതേ വികാരം നമുക്ക് ഒരു ദേഷ്യം അല്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ സന്തോഷം പറയാം ഓരോ നല്ല നടനും അല്പം വ്യത്യസ്തമായ രീതിയിലും ആളുകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന രീതിയിലും ഇമോട്ട് ചെയ്യും സൈക്കോമോട്ടോർ ക്രീയേയ്റ്റിംഗ് എന്ന് നിങ്ങൾ വിളിക്കുന്നത് അവിടെയാണ് സൈക്കോമോട്ടർ ഡൊമെയ്നിന്റെ ചില ലളിതമായ പ്രവർത്തന ക്രിയകൾ ബെൻഡ് ഗ്രാസ്പ് ഹാൻഡിൽ ഓപ്പറേറ്റ് റീച്ച് റീലാക്സ് ഷോർട്ടൻ സ്ട്രെച്ച് റൈറ്റ് ഡിഫറെൻഷിയേറ്റ് എക്സ്പ്രസ്സ് പെർഫോം സ്കിൽഫുള്ളി തുടങ്ങിയവ നമ്മൾ സൈക്കോമോട്ടർ ഡൊമെയ്നിലേക്ക് വളരെ ചുരുക്കമായി മാത്രമേ നോക്കുന്നുള്ളൂ കാരണം നമ്മളുടെ തുടർന്നുള്ള യൂണിറ്റുകളിൽ നാം ആക്ഷൻ ക്രിയകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കില്ല കാരണം സൈക്കോമോട്ടോർ പെരുമാറ്റം പ്രാധാന്യമുള്ള കോഴ്സുകളുമായി നാം ഇടപെടുന്നില്ല ശരി ചുരുക്കത്തിൽ കർശനമായി പറഞ്ഞാൽ ടാക്സോണമി 1 ൽ നാം കണ്ടതുപോലെ കോഗ്നിറ്റീവ് അഫക്റ്റീവ് സൈക്കോമോട്ടോർ പ്രവർത്തനങ്ങൾ പരസ്പരം സ്വതന്ത്രമല്ല ഈ മൂന്ന് പ്രവർത്തനങ്ങളും ഉയർന്ന തലത്തിൽ സംയോജിപ്പിക്കാൻ കഴിയുമെന്ന് ഈ യൂണിറ്റിന്റെ തുടക്കത്തിൽ നാം കാണിച്ചു നാം കാണിച്ച മൂന്ന് ഡൊമെയ്നുകളും ഒരു ടോപ്പ് ക്ലാസ് സംഗീതജ്ഞനോ നർത്തകിയോ പോലെ ഉള്ളവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും മൂന്ന് ഡൊമെയ്നുകളിലും അവർക്ക് പ്രവർത്തനങ്ങൾ ഉണ്ടാകും നാം പറയാൻ താൽപ്പര്യപ്പെടുന്ന മറ്റൊരു അഭിപ്രായം കൂടുതൽ അഫക്റ്റീവും സൈക്കോമോട്ടർ പ്രവർത്തനങ്ങളും കൂടുതൽ കോഗ്നിറ്റീവ് പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു ഉയർന്ന തലത്തിലുള്ള അഫക്റ്റീവ് പ്രവർത്തനങ്ങൾ ശുദ്ധമായ പ്രവർത്തനങ്ങളല്ല കോഗ്നിറ്റീവ് വിലയിരുത്തലുകൾ വിവരങ്ങളുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് എന്നിവ അവയിൽ ഉൾപ്പെടുന്നു അതിനാൽ ഉയർന്ന തലത്തിലുള്ള അഫക്റ്റീവ് സൈക്കോമോട്ടോർ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കൂടുതൽ കോഗ്നിറ്റീവ് പ്രക്രിയകൾ ഉൾപ്പെടും എഞ്ചിനീയറിംഗ് കോഴ്സുകളിലെ കോഗ്നിറ്റീവ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന അഫക്റ്റീവ് ഘടകങ്ങളെ സമന്വയിപ്പിക്കുന്നതിന് ഇപ്പോൾ ഇൻസ്ട്രക്ടർ ഈ ആശ്രയത്വങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് ഇപ്പോഴും ഒരു കലയാണ് നല്ല അധ്യാപകർ ഇത് അവബോധപൂർവ്വം ചെയ്യാം ഉദാഹരണത്തിന് നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ നിങ്ങൾ ക്ഷണിക്കുന്നത് എങ്ങനെയാണ് ഒരുപക്ഷേ നിങ്ങൾക്ക് ഒരു ചെറിയ കഥ സൃഷ്ടിക്കാൻ താൽപ്പര്യമുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ താൽപ്പര്യമുണ്ടാക്കുന്ന ഒരു വീഡിയോ കാണിക്കുകയോ ചെയ്യുകയും അത് വഴി അവരുടെ ശ്രദ്ധ നേടുകയും ചെയ്യുന്നു ശ്രദ്ധ നേടുന്നത് ഒരു ഫലപ്രദമായ പ്രവർത്തനമാണ് നല്ല അധ്യാപകർ അത് ചെയ്യുന്നതിനുള്ള സ്വന്തം വഴി കണ്ടെത്തുന്നു വാസ്തവത്തിൽ അവർ ഒരു നല്ല അധ്യാപകനാകണമെന്നില്ല ഈ ഡൊമെയ്നുകളെക്കുറിച്ച് അറിഞ്ഞിരിക്കാം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കില്ല പക്ഷേ അവ അവബോധപൂർവ്വം അഫക്റ്റീവ് ഡൊമെയ്നിൽ ഈ പ്രവർത്തനം നടത്തുന്നതായി തോന്നുന്നു ഇനി നമുക്ക് മൂന്ന് ഡൊമെയ്നുകളും പരിശോധിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉപകരണം കൺസെപ്റ്റ് മാപ്പ് ഉപയോഗിച്ച് ഗ്രാഫിക്കായി അവ ഇവിടെ അവതരിപ്പിക്കുന്നു പഠനത്തിന് കോഗ്നിറ്റീവ് ഡൊമെയ്ൻ അഫക്റ്റീവ് ഡൊമെയ്ൻ സൈക്കോമോട്ടർ ഡൊമെയ്ൻ എന്നിവയുൾപ്പെടെയുള്ള ഡൊമെയ്നുകൾ ഉണ്ട് പൂർത്തീകരിക്കുന്നതിന് ഞങ്ങൾ സ്പിരിറ്റുവൽ ഡൊമെയ്ൻ ഉൾപ്പെടുത്തും കോഗ്നിറ്റീവ് ഡൊമെയ്ൻ ഇപ്പോൾ വരെ ഞങ്ങൾ കണ്ട എല്ലാ പ്രഭാഷണങ്ങളിലൂടെയും പ്രക്രിയകൾ ശ്രേണിക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നു ക്രീയേറ്റ് എവാല്യൂവേറ്റ് അനലൈസ് അപ്ലൈ അണ്ടർസ്റ്റാൻഡ് പിന്നെ റിമെംബർ റിമെംബർ ഏറ്റവും താഴ്ന്ന നിലയാണ് അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ഡൊമെയ്നിന് വിജ്ഞാന വിഭാഗങ്ങളുണ്ട് ഫാക്റ്റ്വൽ അറിവ് കോൺസെപ്പ്റ്റുവൽ അറിവ് പ്രൊസെഡ്യൂറൽ അറിവ് പിന്നെ മെറ്റാകോഗ്നിറ്റീവ് അറിവ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ നാലിന് പുറത്ത് എഞ്ചിനീയറിംഗിന് പ്രത്യേകമായി ചില വിഭാഗങ്ങളുണ്ട് ഫണ്ടമെന്റൽ ഡിസൈൻ കോൺസെപ്റ്റസ് ക്രൈറ്റീരിയ ആൻഡ് സ്പെസിഫിക്കേഷൻസ് പ്രാക്ടിക്കൽ കോൺസ്ട്രയിന്റ്സ് ഡിസൈൻ ഇൻസ്ട്രുമെന്റലിറ്റീസ് എന്നിവ അവയിൽ ഉൾപ്പെടുന്നു അഫക്റ്റീവ് ഡൊമെയ്നിലേക്ക് വരുമ്പോൾ അവിടെ പിയേഴ്സും ഗ്രേയും നൽകിയ ആറ് പ്രധാന വിഭാഗങ്ങളും നാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരാളുടെ സ്വന്തം വികാരങ്ങൾ അറിയുന്നത് മുതൽ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതുവരെ ഈ അഞ്ചും അടങ്ങുന്ന ഇമോഷണൽ ഇന്റലിജൻസ് സുഗമമാക്കുന്നതിലൂടെയാണ് ഇത് പരിഹരിക്കപ്പെടുന്നത് ഗ്രേ പിയേഴ്സ് എന്നിവർ നൽകിയ ഈ ആറ് ലെവലുകളായ വിഭാഗങ്ങളും സൈക്കോമോട്ടർ ഡൊമെയ്നിനുണ്ട് ആകസ്മികമായി പിയേഴ്സും ഗ്രേയും കോഗ്നിറ്റീവ് ഡൊമെയ്നിനെയും ആറ് വിഭാഗങ്ങളായി കാണാൻ ഇഷ്ടപ്പെടുന്നു അതിനാൽ മൂന്ന് ഡൊമെയ്നുകളും ആറ് വീതമുള്ളതായിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നു ഇത് ബാധിക്കുന്നതായി തോന്നുന്നുവെങ്കിലും അവ വിജ്ഞാന വിഭാഗങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നില്ല അവ പ്രക്രിയയുടെ ഭാഗം മാത്രമാണ് ഇവയിൽ ഓരോന്നും ആറ് ഓരോന്നിനും ഉപ പ്രക്രിയകളുണ്ട് ഇവയും നിരവധി ഉപ പ്രക്രിയകളും ഉൾപ്പെടെ പൂർത്തിയാകുന്നതിന് ഒരു സ്പിരിറ്റുവൽ ഡൊമെയ്ൻ തികച്ചും വിവാദപരമാണ് മാത്രമല്ല ഓരോരുത്തർക്കും ഇത് അവരുടേതായ രീതിയിലായിരിക്കും ഐഡന്റിറ്റി അഥവാ സ്വത്വവും ഇന്റെഗ്രിറ്റി അഥവാ സമഗ്രതയുമാണ് സ്പിരിറ്റുവൽ ഡൊമെയ്നിന്റെ സവിശേഷത നാം ഇത് ഇങ്ങനെ തന്നെ ഉപേക്ഷിക്കും ഇത് കൃത്യമായി എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക ഇപ്പോൾ ഇതുമായി ബന്ധപെട്ട അസൈൻമെൻറ്സ് നിങ്ങൾക്ക് പരിചിതമായ കോഴ്സുകളിൽ നിന്ന് ആറ് അഫക്റ്റീവ് നിലകളിൽ ഓരോന്നിൽ നിന്നും കുറഞ്ഞത് ഒരു ഉദാഹരണമെങ്കിലും നൽകുക നിങ്ങൾക്ക് അൽപ്പം പര്യവേക്ഷണം ചെയ്യാനും ഓരോ ലെവലിനുമായി ഒരു ഉദാഹരണം നൽകാനും കഴിയുമോ നിങ്ങളുടെ കോഴ്സുമായി നിങ്ങൾക്ക് എങ്ങനെ ബന്ധപ്പെടുത്താം അത് പോലെ ആറ് സൈക്കോമോട്ടോർ ലെവലുകളിൽ ഓരോന്നിൽ നിന്നും കുറഞ്ഞത് ഒരു ഉദാഹരണമെങ്കിലും നിങ്ങൾക്ക് പരിചിതമായ കോഴ്സുകളിൽ നിന്നുള്ളവ നൽകുക അവ ഒരൊറ്റ കോഴ്സിൽ ഉൾപ്പെടേണ്ടതില്ല എന്നാൽ നിങ്ങൾക്ക് പരിചിതമായ എന്തും അഫക്റ്റീവ് ഡൊമെയ്ൻ സൈക്കോമോട്ടർ ഡൊമെയ്ൻ എന്നിവയുടെ ആറ് ലെവലുകളിൽ ഓരോന്നിനും നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകാൻ കഴിയുമെങ്കിൽ ഈ രണ്ട് ഡൊമെയ്നുകളെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു അടിസ്ഥാന ധാരണ ലഭിക്കും അടുത്ത യൂണിറ്റ് 15 ാം യൂണിറ്റിലെ ടാക്സോണമിയിലെ അവസാന വശം ഫലങ്ങൾ വിലയിരുത്തൽ നിർദ്ദേശം എന്നിവയ്ക്കിടയിലുള്ള വിന്യാസം നേടുന്നതിൽ ടാക്സോണമി പട്ടികയുടെ സ്വഭാവവും പ്രാധാന്യവും നാം മനസിലാക്കും അതിനാൽ നിങ്ങളുടെ ഫലങ്ങൾ എഴുതുന്നതിനുള്ള ആസൂത്രണം വിലയിരുത്തൽ രൂപകൽപ്പന ചെയ്യൽ ആസൂത്രണ നിർദ്ദേശങ്ങൾ എന്നിവ ആസൂത്രണം ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു പട്ടിക ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു അത് നമ്മുടെ അടുത്ത യൂണിറ്റിന്റെ കേന്ദ്ര ഉദ്ദേശമായിരിക്കും വളരെയധികം നന്ദി